ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം ഈ പ്രത്യേക മൊഡ്യൂളിൽ ഓപ്പറേഷനൽ ആംപ്ലിഫയർ ഉപയോഗിച്ച് ഹൈപാസ് ഫിൽട്ടർ എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്ന് നമ്മൾക്ക് നോക്കാം ഇതു വരെ നമ്മൾ എന്താണ് കണ്ടത് ലോ പാസ് ഫിൽട്ടർ രൂപകൽപ്പന ചെയ്യുന്നതിന് എങ്ങനെ ഒരു ഓപ്പറേഷനൽ ആംപ്ലിഫയർ ഉപയോഗിക്കാമെന്ന് നമ്മൾ കണ്ടു പിന്നെ നിഷ്ക്രിയവും സജീവവുമായ ഫിൽട്ടറുകൾ എന്തൊക്കെയാണെന്നും നമ്മൾ കണ്ടു അതിനാൽ ലോപാസ് ആക്റ്റീവ് ഫിൽട്ടറുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എന്താണ് കണ്ടത് നമുക്ക് ആംപ്ലിഫയർ ഉപയോഗിക്കണം എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് നമ്മൾ ഒരു ഓപ്പറേഷനൽ ആംപ്ലിഫയർ ഉപയോഗിച്ചു ഈ പ്രത്യേക മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ ഉപയോഗിച്ച് ഹൈ പാസ് ആക്റ്റീവ് ഫിൽട്ടർ എങ്ങനെ രൂപകൽപ്പന ചെയ്യാം എന്നാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹൈ പാസ് ഫിൽറ്റർ കാണാം ഇത് ഗണ്യമായി സിഗ്നലിനെ കുറക്കുന്ന ഒരു ഫിൽട്ടറാണ് ഇനി നമ്മുക്ക് അത് സ്ക്രീനിൽ കാണാം ഹൈ പാസ് ഫിൽട്ടർ എന്നു പറഞ്ഞാൽ എഫ്സിക്ക് താഴെയുള്ള എല്ലാ ഫ്രീക്വൻസികളെയും ഗണ്യമായി കുറക്കുകയോ നിരസിക്കുകയോ ചെയുന്നു പിന്നെ എഫ്സിക്ക് മുകളിലുള്ള എല്ലാ ഫ്രീക്വൻസികളെയും കടന്നുപോകാൻ അനുവദിക്കുന്നു അതിനാൽ എന്താണ് ആ ഫിൽട്ടർ എഫ്സിക്ക് താഴെയുള്ള എല്ലാ ഫ്രീക്വൻസികളെയും നിരസിക്കും എഫ്സിക്ക് മുകളിലുള്ള എല്ലാം കടത്തിവിടുന്നു അപ്പോൾ എന്താണ് ആ എഫ് സി കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ കണ്ട നിർണായക ആവൃത്തിയാണ് എഫ് സി ഇനി ആർ സി എന്നിവയുടെ സ്ഥാനം ലോ പാസ് ഫിൽട്ടറിൽ നിന്ന് വ്യത്യസ്തമാണ് ഹൈ പാസ് ഫിൽട്ടറിൽ എന്ന് നമുക്ക് കാണാൻ കഴിയും റെസിസ്റ്റർ ഇവിടെയാണ് കപ്പാസിറ്റർ ഇവിടെയാണ് ലോ പാസിന് വിപരീത കോൺഫിഗറേഷനിലാണ് ഇത് ഹൈ പാസ് ഫിൽട്ടറിന്റെ പാസ്ബാൻഡ് നിർണായക ആവൃത്തികൾക്ക് മുകളിലുള്ള എല്ലാ ആവൃത്തികകളും ആണ് ഇനി ഹൈ പാസ് ഫിൽട്ടർ എന്താണെന്ന് നമുക്ക് നോക്കാം ഈ പ്രത്യേക പ്ലോട്ട് കണ്ടാൽ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിയും അത് നിർണായക ആവൃത്തികൾക്ക് മുകളിലുള്ള ആവൃത്തികളെ അനുവദിക്കും അവസാന മൊഡ്യൂളിൽ ലോ പാസ് ഫിൽട്ടർ നമ്മൾ കണ്ടു ലോ പാസ് ഫിൽട്ടർ നിർണായക ആവൃത്തികൾക്ക് താഴെയുള്ള ആവൃത്തികളുടെ ബാൻഡ് കടന്നുപോകാൻ അനുവദിക്കുമ്പോൾ ഹൈ പാസ് ഫിൽട്ടറിന്റെ കാര്യത്തിൽ നിർണായക ആവൃത്തികൾക്ക് മുകളിലുള്ള ആവൃത്തികളുടെ ബാൻഡ് കടന്നുപോകാൻ അനുവദിക്കുന്നു അതിനാൽ ഇത് അനുയോജ്യമായ ഒരു പ്രതികരണമാണ് കാരണം വീണ്ടും കൃത്യമായി എഫ് സി യിൽ ഇഷ്ടിക മതിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഒരു ഐഡിയൽ റെസ്പോൺസ് ആണ് ഇത് ഇവിടെ ആവൃത്തികളെ നിർത്തും ഇതൊരു സ്റ്റോപ്പ് ബാൻഡാണ് ഇതൊരു പാസ് ബാൻഡാണ് അതിനാൽ ഗെയ്ൻ വേഴ്സസ് ഫ്രീക്വൻസി വരച്ചാൽ എനിക്ക് ഇതുപോലുള്ള ഒരു പ്ലോട്ട് ഉണ്ടാകും അത് ലോ പാസ് ഫിൽട്ടറിന് വിപരീതമാണ് ഇനി അടുത്തത് എന്താണ് ഒറ്റ പോൾ പ്രതികരണം നമുക്ക് നോക്കാം സിംഗിൾ പോൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നും ഫസ്റ്റ് ഓർഡർ എന്താണ് അർത്ഥമാക്കുന്നത് എന്നും രണ്ടാമത്തെ ഓർഡർ ലോ പാസ് ഫിൽട്ടറുകൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നും നേർത്തത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇപ്പോൾ നമ്മൾ ഇവിടെ ഹൈ പാസ് ഫിൽട്ടറുകളിൽ ഒരു ആർ ഒരു സി മാത്രമുള്ള സിംഗിൾ പോൾ ആർസി ഫിൽറ്റർ നോക്കാം നിങ്ങൾക്ക് ഈ റെസിസ്റ്ററിലുടനീളം ഒരു വോൾട്ടേജ് സൃഷ്ടിക്കാൻ കഴിയും തുടർന്ന് നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും ഒരു ദശകത്തിൽ ഇരുപതു ഡി ബി എന്ന റോൾ ഓഫ് റേറ്റ് ഉണ്ട് കാരണം ഇത് സിംഗിൾ പോൾ ആർസി അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ ആർസി ഫിൽട്ടർ ആണ് എനിക്ക് രണ്ടാമത്തെ ഓർഡർ ഹൈ പാസ് ഫിൽട്ടർ ഉണ്ടെങ്കിൽ റോൾ ഓഫ് നിരക്ക് നാൽപതു ഡിബി ആയിരിക്കും മൂന്നാം ഓർഡർ ഹൈ പാസ് ഫിൽട്ടർ എന്റെ റോൾ ഓഫ് നിരക്ക് അറുപതു ഡിബി ആയിരിക്കും അതിനാൽ നിങ്ങൾ ഓർഡർ വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ അനുയോജ്യമായ പ്രതികരണത്തിലെത്തുന്നു ശരിയല്ലേ ഇനി ഹൈ പാസ് ആർസി ഫിൽറ്ററിന്റെ നിർണ്ണായക ആവൃത്തി സംഭവിക്കുന്നത് എപ്പോൾ ആണ് എന്താണ് ഫോർമുല നിങ്ങളുടെ ലോ പാസ് ഫിൽട്ടറിന് സമാനമാണ് ഫോർമുല fc 1 2 πRC ഇതേ ഫോർമുല നമ്മൾ ലോപാസ് ഫിൽറ്ററിനും ഉപയോഗിച്ചിരുന്നു ഒരു സജീവ ലോപാസ് ഫിൽട്ടറിനുള്ള നിർണായക ആവൃത്തി ഫോർമുല ഇതാണ് ഇവിടെ എക്സ് ആർ ന് തുല്യമാകുന്നത് ഇവിടെയുള്ള ഫോർമുല ഉപയോഗിച്ച് കണക്കാക്കാം ഇവിടെ നിർണായക ആവൃത്തി എഫ് എൽ ഹേർട്സിൽ പെട്ടെന്ന് പ്രതികരണം ഉയരുന്നു അതിനാൽ ഇവിടെ നിർണ്ണായക ആവൃത്തി എഫ് എൽ ആയിരിക്കും ഇപ്പോൾ ഞാൻ സജീവ ഫിൽട്ടറിനെക്കുറിച്ചു പറയുമ്പോൾ അതും ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ഫിൽറ്റർ അതിന്റെ മൂന്ന് കാര്യങ്ങൾ ആണ് പറയാൻ ഉള്ളത് അതിനെ ആദ്യത്തെ ഓർഡർ എന്ന് വിളിക്കുന്നു കാരണം ഒരു ആർ ഒരു സി പിന്നെ ഹൈ പാസ് എന്ന് പറയാൻ കാര്യം ഇത് ഉയർന്ന ആവൃത്തി കടന്നുപോകാൻ അനുവദിക്കും നിർണായക ആവൃത്തിക്ക് മുകളിലുള്ള ആവൃത്തി കടന്നുപോകാൻ അനുവദിക്കും നിർണ്ണായക ആവൃത്തിയേക്കാൾ കുറവുള്ള ആവൃത്തി അത് നിർത്തും അതിനാൽ ഇത് എന്റെ സ്റ്റോപ്പ് ബാൻഡ് ആയിരിക്കും ഇത് എന്റെ പാസ് ബാൻഡ് ആയിരിക്കും ഇനി നമുക്ക് സജീവമായ ഫിൽട്ടറുകൾ ഉണ്ട് നമ്മൾ ഇവിടെ നോൺ ഇൻവെർട്ടിങ് ആംപ്ലിഫയർ ആണ് ഉപയോഗിക്കുന്നത് അതിനാൽ ഇൻവെർട്ടിങ് ആംപ്ലിഫയർ എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്നും പരീക്ഷണ ഭാഗത്ത് കാണാം നോൺ ഇൻവെർട്ടിങ് ആംപ്ലിഫയർ എങ്ങനെ രൂപകൽപ്പന ചെയ്യാം എങ്ങനെ ഇന്റഗ്രേറ്റർ രൂപകൽപ്പന ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെ ഡിഫറെൻഷ്യറ്റർ രൂപകൽപ്പന ചെയ്യാനാകും ഗ്രൌണ്ടിന്റെ പങ്ക് എന്താണ് ലോഡിംഗ് ഇഫക്റ്റിന്റെ പങ്ക് എന്താണ് എന്നൊക്കെ പരീക്ഷണ വിഭാഗത്തിൽ നമുക്ക് നോക്കാം സ്ക്രീനിൽ നോക്കുമ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത് മുമ്പത്തെ സജീവ ലോ പാസ് ഫിൽട്ടർ പോലെ സജീവ ഹൈ പാസ് ഫിൽട്ടറിന്റെ ഏറ്റവും ലളിതമായ രൂപം ഒരു അടിസ്ഥാന ആർസി ഹൈ പാസ് ആക്റ്റീവ് ഫിൽറ്റർ എന്നത് ഹൈ പാസ് പാസീവ് ഫിൽറ്റർ ഒരു ഇൻവെർട്ടിംഗ് അല്ലെങ്കിൽ നോൺ ഇൻവെർട്ടിംഗ് ഓപ്പറേഷനൽ ആംപ്ലിഫറുമായി ബന്ധിപ്പിക്കുക എന്നതാണ് അതിനർത്ഥം നമ്മൾക്ക് ഒരു നിഷ്ക്രിയ ഫിൽട്ടർ ഉണ്ട് നമ്മൾക്ക് ഈ നിഷ്ക്രിയ ഫിൽട്ടറിനെ ഇൻവെർട്ടിംഗ് അല്ലെങ്കിൽ നോൺ ഇൻവെർട്ടിംഗ് അല്ലെങ്കിൽ യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയറുമായി ബന്ധിപ്പിക്കുന്നു ഇവിടെ ഗെയ്ൻ ഒന്നാണ് എന്നാൽ എനിക്ക് ഉയർന്ന ഗെയ്ൻ വേണമെങ്കിൽ എനിക്ക് ഇവിടെ ഇൻവെർട്ടിംഗ് അല്ലെങ്കിൽ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ഉപയോഗിക്കാം പിന്നെ ഇവിടെ നമ്മൾ യൂണിറ്റി ഗെയ്ൻ ആംപ്ലിഫയർ ആണ് ഉപയോഗിക്കുന്നത് അതിനാൽ സാങ്കേതികമായി അത്തരമൊരു കാര്യമില്ല തുടർന്ന് നിഷ്ക്രിയ ഹൈ പാസ് ഫിൽട്ടറിൽ നിന്ന് വ്യത്യസ്തമായി സജീവമായ ഹൈ പാസ് ഫിൽട്ടർ എങ്ങനെയാണെന്നു വെച്ചാൽ നമ്മൾക്ക് അനന്തമായ ആവൃത്തി പ്രതികരണം കിട്ടില്ല സജീവമായ ഹൈ പാസ് ഫിൽട്ടറിന്റെ പരമാവധി പാസ് ബാൻഡ് ആവൃത്തി പ്രതികരണം ഓപ്പൺ ലൂപ്പ് സവിശേഷതകളും ബാൻഡ്വിഡ്ത്തും ഉപയോഗിച്ച് പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ഏത് തരം ഹൈ പാസ് ആക്റ്റീവ് ഫിൽട്ടറാണ് നമ്മൾക്ക് രൂപകൽപ്പന ചെയ്യാൻ കഴിയുക സജീവമായ ഹൈ പാസ് ഫിൽട്ടറുകളുടെ കാര്യത്തിൽ വോൾട്ടേജ് ഗെയ്ൻ എന്തായിരിക്കും അതിനാൽ നമ്മൾ കണ്ടത് യൂണിറ്റി ഗെയ്ൻ ആംപ്ലിഫയർ ഉപയോഗിച്ച് നമ്മൾക്ക് സജീവമായ ഹൈ പാസ് ഫിൽട്ടർ ഉപയോഗിക്കുന്നു എന്നതാണ് പക്ഷേ എനിക്ക് സിഗ്നൽ ആംപ്ലിഫയർ താൽപ്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇൻവെർട്ടിങ് അല്ലെങ്കിൽ നോൺ ഇൻവെർട്ടിങ് ആംപ്ലിഫയർ ഉപയോഗിക്കേണ്ടതുണ്ട് ഞാൻ ഇവിടെ നോൺ ഇൻവെർട്ടിങ് ആംപ്ലിഫയർ ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കു ഇവിടെ കാണാം ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് നോൺ ഇൻവെർട്ടിങ് ടെർമിനൽ ഓഫ് ഓപ്പറേഷനൽ ആംപ്ലിഫൈറിലേക്കു കൊടുക്കുന്നു ഇത് ശെരിയല്ല ഒരു ഫസ്റ്റ് ഓർഡർ ആക്ടീവ് ഹൈ പാസ് ഫിൽറ്റർ എന്നുപറയുന്നത് കുറഞ്ഞ ആവൃത്തിയേ കുറക്കുകയും പിന്നെ കൂടിയ ആവർത്തിയെ കടത്തി വിടുകയും ചെയ്യുന്നു അതിൽ ഒരു നിഷ്ക്രിയ ഫിൽട്ടർ വിഭാഗവും അതിനുശേഷം നോൺ ഇൻവെർട്ടിങ് ഓപ്പറേഷനൽ ആംപ്ലിഫയർ വിഭാഗവും അടങ്ങിയിരിക്കുന്നു എന്നു നമ്മൾ ഇവിടെ കണ്ടു ഇതാണ് നിഷ്ക്രിയ ഫിൽട്ടർ ഇതാണ് നമ്മളുടെ നോൺ ഇൻവെർട്ടിങ് ഓപ് അമ്പ് സർക്യൂട്ടിന്റെ ആവൃത്തി പ്രതികരണം നിഷ്ക്രിയ ഫിൽട്ടറിന് സമാനമാണ് ആവൃത്തി പ്രതികരണത്തിനുള്ള സമവാക്യം സമാനമാണ് പിന്നെ അത് fc 1 2 πRC സിഗ്നലിന്റെ വ്യാപ്തി കൂട്ടുന്നത് ആംപ്ലിഫയറിന്റെ ഗെയ്ൻ കാരണം ആണ് ഇവിടെ നമുക്ക് നോൺ ഇൻവെർട്ടിങ് ആംപ്ലിഫയർ ഉണ്ട് ഡിസി ഗെയ്ൻ എന്നു പറയുന്നത് ആർ ടു ഹരികുക ആർ വൺ കൂടെ ഒന്ന് കൂട്ടുക അതിനാൽ നമ്മൾക്ക് ഇവിടെ ഗെയ്ൻ മാറ്റാൻ കഴിയും ഔട്ട്പുട്ട് ഇൻപുട്ടിന്റെ മാഗ്നിഫൈഡ് അല്ലെങ്കിൽ വിപുലീകരിച്ച പതിപ്പാണെന്ന് നമുക്ക് കാണാൻ കഴിയും അതിനാൽ നമ്മൾ കണ്ടത് സർക്യൂട്ടിന്റെ ആവൃത്തി പ്രതികരണം നിഷ്ക്രിയ ഫിൽട്ടറിന് തുല്യമാണ്പക്ഷേ സിഗ്നലിന്റെ വ്യാപ്തി കൂട്ടുന്നത് ആംപ്ലിഫയറിന്റെ ഗെയ്ൻ കാരണം ആണ് പിന്നേ നോൺ ഇൻവെർട്ടിങ് ആംപ്ലിഫയർ ഇന്റെ പാസ് ബാൻഡ് വോൾടേജ് ഗെയ്ൻ ആർ ടു ഹരികുക ആർ വൺ കൂടെ ഒന്ന് കൂട്ടുക എന്നതാണ് ആണ് ഇത് നമ്മൾ നേരത്തെ സംസാരിച്ചതാണ് പിന്നെ ഇത് ലോ പാസ് ഫിൽറ്റർറിനു സമാനമാണ് ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ഫിൽട്ടറിൽ നിഷ്ക്രിയ ഫിൽട്ടർ അടങ്ങിയിരിക്കുന്നു അതിനുശേഷം നോൺ ഇൻവെർട്ടിങ് ആംപ്ലിഫയർ ആണ് ഉപയോഗിക്കുന്നത് സർക്യൂട്ടിന്റെ ആവൃത്തി പ്രതികരണം നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ നിഷ്ക്രിയ ഫിൽട്ടർ സർക്യൂട്ടിന് തുല്യമാണ്ഫിൽറ്ററിന്റെ വോൾടേജ് ഗെയ്ൻ ഫീഡ്ബാക്ക് റെസിസ്റ്റർ ആയി ബന്ധം ഉണ്ട്

നമ്മൾ എ എഫ് എന്താ എന്ന് കണ്ടിരുന്നു എ എഫ് എന്താ എന്ന് വെച്ചാൽ ഒരു പാസ് ബാൻഡ് ഗെയ്നിന്റെ ഫോർമുല ആണ് ലോ പാസ് ഫിൽറ്ററിന്റെ ഗെയ്ൻ ഇന് സമാനമാണ് ഒരു വ്യത്യാസം എന്ത് എന്ന് വച്ചാൽ നമ്മൾ സിഗ്നലിനെ കപ്പാസിറ്റർ ഇൽ കൂടെയാണ് ആണ് വിടുന്നത് പിന്നെയാണ് റെസിസ്റ്ററിൽ കൂടെ പോകുന്നത് നേരത്തെ ലോ പാസ് ഫിൽറ്ററിൽ സിഗ്നൽ റെസിസ്റ്ററിൽ കൂടെ ആണ് ആദ്യം പോകുന്നത്പിന്നെ കപ്പാസിറ്റർ ഇവിടെ ആയിരിന്നു ലോ പാസ് ഫിൽട്ടറും ഹൈ പാസ് ഫോല്ടെരും ഓപ്പറേഷനൽ ആംപ്ലിഫൈറിന്റെ ബേസിക് സിറക്യൂട് കൾ ആണ് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല എഫ് സി കട്ട് ഓഫ് ഫ്രീക്വൻസി ഇൻ ഹേർട്സ് ആണ് നമ്മൾ ഇത് നേരത്തെ കണ്ടു അതിനാൽ ഈ സാഹചര്യത്തിൽ ഞാൻ ഈ പ്രത്യേക ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ആവൃത്തിയിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം വളരെ കുറഞ്ഞ ആവൃത്തികളിൽ എന്റെ Vout Vin എ എഫ് നേക്കാൾ വളരെ കുറവായിരിക്കും എഫ് സമം എഫ് സി യിൽ മൂല്യം 0 707 ആയിരിക്കും എന്നാൽ വളരെ ഉയർന്ന ആവൃത്തിയിൽ എന്റെ മൂല്യം എ അഫിന് തുല്യമായിരിക്കും ആക്റ്റീവ് ഫിൽറ്ററിന്റെ ഈക്വാഷൻ നോക്കുമ്പോൾ നമുക്ക് കാണാം എ എഫ് സീറോ ഹേർട്സ് മുതൽ ലോ ഫ്രീക്വൻസി വരെ കൂടുമ്പോൾ നിങ്ങൾ സ്ക്രീനിലേക്കു നോക്കു അപ്പോൾ മനസിലാകുംഅതായതു ആക്റ്റീവ് ഫിൽറ്ററിന്റെ ഗെയ്ൻ എ എഫ് അത് സീറോ ഹേർട്സ് മുതൽ ലോ ഫ്രീക്വൻസി കട്ടോഫ്ഫ് പോയിന്റ് വരെ ഇരുപതു ഡെസിബെൽ പേർ ഡികേഡ് എന്ന രീതിയിൽ കൂടുന്നു എനിക്ക് സെക്കൻഡ് ഓർഡർ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ദശകത്തിൽ 40 ഡിബി മൂന്നാം ഓർഡർ ഒരു ദശകത്തിൽ 60 ഡിബി എഫ് സമം എഫ് സി യിൽ ഗെയ്ൻ പോയിന്റ് ഏഴു പൂജ്യം ഏഴു എഫ് ആകുന്നു എപ്പോഴാണു എഫ് സി പോയിന്റ് കഴിയുന്നത് അപ്പോൾ എല്ലാ ആവൃത്തികളെയും കടത്തിവിടും പിന്നെ ഗെയ്ൻ സ്ഥിരമായ വാല്യൂ എ എഫ് ആയിരിക്കും ഞാനിപ്പോൾ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ എന്താണ് ഞാൻ കാണുന്നത് എന്ന് വെച്ചാൽ എഫ് സി ന് മുകളിലുള്ള എല്ലാ ആവൃത്തികളും കടന്നുപോകുകയും എഫ് സി ന് താഴെയുള്ളവ നിർത്തുകയും ചെയ്യും എന്നിരുന്നാലും ഞാൻ പറഞ്ഞതുപോലെ ഒരു റോൾ ഓഫ് റേറ്റ് ഉണ്ട് പിന്നെ ഇത് ഒരു സിംഗിൾ ഓർഡർ ആയതുകൊണ്ട് ട റോൾ ഓഫ് റേറ്റ് ഒരു ദശകത്തിൽ ഇരുപത് ഡിബി ആണ് ഞാൻ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് ഫ്രീക്വൻസി എഫ് സി കണക്കുകൂട്ടുക യാണെങ്കിൽ fc 1 2 πRC ലളിതമായ ഒരു നിഷ്ക്രിയ ഹൈ പാസ് ഫിൽട്ടർഇൽ കപ്പാസിറ്റർ സി ഒരു മൈക്രോ ഫെർഡിനു സമമാണ് ഇവിടെ ഒരു കിലോ ഓം റെസിസ്റ്ററുമായി സീരീസിൽ ബന്ധിപ്പിക്കുന്നു എനിക്ക് R ന്റെ മൂല്യമുണ്ട് എനിക്ക് സി യുടെ മൂല്യമുണ്ട് എനിക്ക് ഇപ്പോൾ എഫ് സി യുടെ വാല്യൂ കണ്ടുപിടിക്കാം എന്റെ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ കട്ടോഫ്ഫ് ഫ്രീക്വൻസി മറ്റൊന്നും ഇല്ല 1 2 πRC അത് 159 15 ഹേർട്സ് നു സമമാണ് ഇങ്ങനെയാണ് ഞാൻ എൻറെ ഹൈ പാസ് ഫിൽറ്ററിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി കാണുന്നത് നമുക്ക് മറ്റൊരു ഉദാഹരണ ഡിസൈൻ നോക്കാം ഇപ്പോൾ നിങ്ങൾ ഒരു നോൺ ഇൻവെർട്ടിങ് സജീവ ഹൈ പാസ് ഫിൽറ്റർ രൂപകൽപ്പന ചെയ്യണം അത് ഗെയ്ൻ രണ്ടു ന് തുല്യമാണ് ലോവർ കട്ട്ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ കോർണർ ഫ്രീക്വൻസി രണ്ടു കിലോ ഹെർട്സ് ആണ് 79 5 നാനോ ഫറാഡിന്റെ കപ്പാസിറ്റൻസ് ഈ 3 കാര്യങ്ങളുണ്ട് ആദ്യം ആയി ഗെയ്ൻ ടു എന്ന് തന്നിട്ടുണ്ട് നോൺ ഇൻവെർട്ടിങ് ആംപ്ലിഫയർ ഗെയ്ൻ ആർ ടു ഹരികുക ആർ വൺ രണ്ടു എന്ന വാല്യൂ വിനു സമമാണ് ആർ ടു ഹരികുക ആർ വൺ ഒന്നിന് സമമാണ് ഇപ്പോൾ ആവൃത്തി ഇവിടെ എഫ് സി ആയി നൽകിയിരിക്കുന്നു അതിനാൽ എനിക്ക് കണ്ടെത്താൻ കഴിയും fc 1 2 πRC ആർ നൽകിയിരിക്കുന്നു എഫ് സി നൽകിയിരിക്കുന്നു സി നൽകിയിരിക്കുന്നു R 1 2 π fcC ഞാൻ ആർ ന് വാല്യൂ സബ്സ്റ്റിട്യൂട് ചെയ്താൽ പിന്നെ ആർ വൺ ആർ ടു വിനു തുല്യം ആയിരിക്കണമെന്ന് നമ്മൾക്ക് അറിയാം നമ്മൾക്ക് റെസിസ്റ്ററിന്റെ വാല്യൂ കിട്ടി ഇനി നമ്മൾക്ക് ഡിസൈൻ ചെയാം പ്രത്യേക മൂല്യങ്ങൾ കട്ട്ഓഫ് കോർണർ ആവൃത്തിയും കപ്പാസിറ്റൻസിന്റെ മൂല്യവും നൽകിയതിനാൽ ചുവടെ കാണിച്ചിരിക്കുന്ന ഈ പ്രത്യേക സർക്യൂട്ട് എനിക്ക് രൂപകൽപ്പന ചെയ്യാൻ കഴിയും എന്റെ ഹൈ പാസ് ആക്റ്റീവ് ഫിൽട്ടറായ സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യേണ്ടിവന്നാൽ ഈ പ്രത്യേക മൂല്യങ്ങൾ ഉപയോഗിച്ച് എനിക്ക് രൂപകൽപ്പന ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് ഒരു സർക്യൂട്ട് നൽകിയാൽ എനിക്ക് എന്റെ ഹൈ പാസ് ഫിൽട്ടർ രൂപകൽപ്പന ചെയ്യാൻ കഴിയും പിന്നെ രണ്ടു വഴികൾകൂടെയും എനിക്ക് ചെയാം പറ്റും അതിനാൽ നമുക്ക് ഒരു ഉദാഹരണം കൂടി നോക്കാം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഫിൽട്ടറിന്റെ കട്ട്ഓഫ് ആവൃത്തിയും പാസ് ബാൻഡ് ഗെയ്നും കണക്കാക്കുക ഈ ചിത്രം നൽകി എന്ന് കരുതുക ഈ ചിത്രം എന്താണ് ഇത് മറ്റൊന്നും അല്ല ഒരു ഹൈ പാസ് സജീവ ഫിൽട്ടർ ആണ് എന്താന്ന് കാണേണ്ടത് എനിക്ക് കട്ട് ഓഫ് ഫ്രീക്യുഎൻസി ആണ് കാണേണ്ടത് അതായതു എഫ് സി fc 1 2 πRC ആർ വൺ തന്നിട്ടുണ്ട് ആർ ടു തന്നിട്ടുണ്ട് സി തന്നിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ എഴുതാം രണ്ടു പൈ ഗുണം പത്തു കെ ഗുണം പോയിന്റ് പൂജ്യം ഒന്ന് മൈക്രോ ഫാർഡ്ഇത് മറ്റു ഒന്നും അല്ല ഒന്ന് അഞ്ചു ഒൻപതു പോയിന്റ് ഒന്ന് അഞ്ചു ഹേർട്സ് എന്റെ നിർണ്ണായക ആവൃത്തി എന്താണ് എന്ന് ഇപ്പോൾ എനിക്കറിയാം ഈ നിർദ്ദിഷ്ട സൂത്രവാക്യം ഉപയോഗിച്ച് നിർണ്ണായക ആവൃത്തി എനിക്ക് കണക്കാക്കാൻ കഴിയും അടുത്ത ചോദ്യം എന്താണ് പാസ് ബാൻഡ് ഗെയ്ൻ പത്തു ഉണ്ട് ഓക്കേ ഇവിടെ ഇത് R2 R 1 10 ആയിരിക്കും എന്തുകൊണ്ട് ഇത് ഒരു ഇൻവെർട്ടിങ് ആംപ്ലിഫയർ ആണ് ഇവിടെ ആർ ടു ഹരികുക ആർ വൺ പത്തിന് സമമാണ് അല്ലെങ്കിൽ ആർ ടു സമം പത്തു ആർ വൺ ഇപ്പോൾ ഞാൻ ആർ ടു സമം പത്തു ആർ വൺ എന്ന് എടുത്താൽ ആർ ടു നൂറു കിലോ ഓം ആകും സർക്യൂട്ട് നൽകിയാൽ കട്ട്ഓഫ് ആവൃത്തി കണക്കാക്കാൻ രൂപകൽപ്പന ചെയ്യാൻ നമുക്ക് കഴിയും മൂല്യങ്ങൾ നൽകിയാൽ നമുക്ക് സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ സർക്യൂട്ട് നൽകിയാൽ നമുക്ക് മൂല്യങ്ങൾ കണ്ടെത്താൻ കഴിയും ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടത് ഓപ്പറേഷനൽ ആംപ്ലിഫയർ ഉപയോഗിച്ച് നമ്മൾക്ക് ഒരു സജീവ ഫിൽട്ടർ രൂപകൽപ്പന ചെയ്യാൻ കഴിയും എന്നാണു ഒരു സർക്യൂട് തന്നാൽ നിങ്ങൾക്കു അതിന്റെ റെസിസ്റ്റർ കപ്പാസിറ്റർ അല്ലെങ്കിൽ ഫ്രീക്യുഎൻസി കണ്ടു പിടിക്കാം അല്ലെങ്കിൽ വാല്യൂ തന്നാൽ നിങ്ങൾക്കു അത് ഡിസൈൻ ചെയാം ഈ പ്രോബ്ലെത്തിലെ പോലെ ഓപ്പറേഷനൽ ആംപ്ലിഫയറുകൾ ഉപയോഗിച്ച് നമുക്ക് ഫിൽട്ടറുകൾ രൂപകൽപ്പന ചെയ്യാൻ കഴിയും ഓപ്പറേഷനൽ ആംപ്ലിഫയർ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഒരു നിശ്ചിത ബാൻഡ് ഫ്രീക്വൻസികൾ കടന്നുപോകാനും ചില ബാൻഡ് ഫ്രീക്വൻസി നിർത്താനും അനുവദിക്കുന്ന ഫിൽട്ടറുകൾ രൂപകൽപ്പന ചെയ്യാൻ കഴിയും അതിനാൽ ഈ പ്രത്യേക മൊഡ്യൂൾ ഹൈ പാസ് ഫിൽട്ടറുകളിൽ ഞങ്ങൾ കണ്ടു ഹൈ പാസും ലോ പാസ് ഫിൽട്ടറുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം കണ്ടു അതായത് ഹൈ പാസ് ഫിൽട്ടറിൽ കപ്പാസിറ്റർ ആരംഭത്തിലാണ് റെസിസ്റ്റർ അടുത്തതാണ് ലോ പാസ് ഫിൽട്ടറിൽ നമ്മൾ സിഗ്നൽ റെസിസ്റ്ററിലേക്കും പിന്നീട് കപ്പാസിറ്ററിലേക്കും നൽകുന്നു അതിനാൽ സിഗ്നൽ റെസിസ്റ്ററിലേക്ക് പോകുന്നു തുടർന്ന് അത് കപ്പാസിറ്ററിലേക്ക് പോകുന്നു പക്ഷേ ഹൈ പാസ് ഫിൽട്ടറിൽ അത് വിപരീതമാണ് നമ്മൾ ലോ പാസ് കണ്ടു അടുത്ത മൊഡ്യൂളിൽ നമ്മൾ ഹൈപാസ് കണ്ടു ബാൻഡ് പാസ് ഫിൽട്ടർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ഇനിപ്പറയുന്ന മൊഡ്യൂളിൽ ബാൻഡ് ഫിൽട്ടർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നമ്മൾ കാണും നമ്മൾ സംസാരിക്കുന്ന പ്രധാന നാല് ഫിൽട്ടറുകൾലോ പാസ് ഹൈ പാസ് ബാൻഡ് പാസ് ബാൻഡ് റിജക്ട് അതിനാൽ അടുത്ത ക്ലാസ്സിൽ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ ഉപയോഗിച്ച് നമ്മൾക്ക് എങ്ങനെ ഒരു ബാൻഡ് പാസ് ഫിൽട്ടർ രൂപകൽപ്പന ചെയ്യാമെന്ന് നോക്കാം അതുവരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതുപോലുള്ള ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ പരിഹരിക്കുക ഓൺലൈനിൽ ലഭ്യമായ കുറെയധികം ചോദ്യങ്ങൾ ഉണ്ട് കുറച്ച് ചോദ്യങ്ങൾ കൂടി പരിഹരിക്കുക നിങ്ങൾക്ക് ഒരു നല്ല അവഗാഹം ലഭിക്കും അതിനാൽ നമ്മൾ വളരെ അടിസ്ഥാന തലത്തിലാണ് ആരംഭിച്ചത് അവിടെ എല്ലാം നൽകിയിട്ടു ഒരു കട്ട്ഓഫ് ആവൃത്തിയുടെ സൂത്രവാക്യം കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെടും അതിനാൽ ഇതിൽ ഒരു തെറ്റും ഉണ്ടാകരുത് അല്ലെങ്കിൽ റെസിസ്റ്ററുകളുടെ മൂല്യങ്ങൾ അല്ലെങ്കിൽ കപ്പാസിറ്റർ അല്ലെങ്കിൽ ഫ്രീക്വൻസി നിങ്ങൾക്ക് എങ്ങനെ സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യാം നമ്മൾ വളരെ അടിസ്ഥാന ഘട്ടത്തിലാണ് അതിനാൽ അത്തരമൊരു ലളിതമായ സർക്യൂട്ടുകൾ രൂപകൽപ്പന ചെയ്യുന്നതിൽ നിങ്ങൾ ഒരു തെറ്റും ചെയ്യരുത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ ഹൈ കട്ട്ഓഫ് സജീവ ഫിൽട്ടറുകൾ രൂപകൽപ്പന ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടും നിങ്ങളോടു ഹൈ കട്ട് ഓഫ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ അതിനർത്ഥം അത് ഹൈ ഫ്രീക്യുൻസിയെ കട്ട് ഓഫ് ചെയ്യുകയും ലോ ഫ്രീക്യുൻസി കടത്തി വിടുകയും ചെയ്യും എന്നാണ് അതിനാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം നൽകുമ്പോൾ ഇത് നന്നായി വായിക്കുക ഇത് ഈ ഹൈ കട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ അത് കുറഞ്ഞ കട്ട് ആണോ അല്ലെങ്കിൽ ഹൈ പാസ് ആണോ അല്ലെങ്കിൽ കുറഞ്ഞ പാസ് ആണോ ലോ പാസ് ഹൈ കട്ട് സമമാണ് ഹൈ പാസ് ലോ കട്ട് എന്നിവ തുല്യമാണ് അതിനാൽ നിങ്ങൾ ഒരു പ്രശ്നം ചെയ്യുമ്പോൾ മനസിലാക്കുക നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് നന്നായി വായിക്കുക മനസിലാക്കുക ചോദ്യം ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുക തുടർന്ന് നിങ്ങൾ പ്രതികരിക്കുക ഇത് നിങ്ങളുടെ പരീക്ഷകളിൽ മാത്രമല്ല നിങ്ങളുടെ അഭിമുഖങ്ങളിലും സഹായിക്കും അതിനാൽ അടുത്ത പ്രത്യേക മൊഡ്യൂളിൽ ഞാൻ നിങ്ങളെ കാണാം തുടർന്ന് ഓപ് ആമ്പ് സർക്യൂട്ടുകൾ ഒരു ബാൻഡ് പാസ് ഫിൽട്ടറായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണാം